ബയോറിയാക്ടറുകളെക്കുറിച്ചുള്ള എൻപിടിഇഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സായ പ്രഭാഷണം നമ്പർ 17 ലേക്ക് സ്വാഗതം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രശ്നം പരിഹരിച്ചു അതിൽ താപനില പിഎച്ച് മീഡിയം ഘടന അജിറ്റേഷനും എയറേഷനുംAgitation Aeration ഓക്സിജന്റെ അളവ് എന്നിവ പോലുള്ള ബയോറിയാക്റ്റർ പ്രകടനത്തെ ബാധിക്കുന്ന ചില ബയോ റിയാക്ടർ വേരിയബിളുകൾ പരിശോധിച്ചു ഇവ നിർണായകമാണ് അവ ശരിയായി അളക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിന്റെ ചില വശങ്ങൾ നമ്മൾ പരിശോധിച്ചു പ്രശ്നത്തിന് മുമ്പുള്ള ക്ലാസ്സിൽ അലിഞ്ഞ ഓക്സിജന്റെ അവസ്ഥയെ നമ്മൾ അറിഞ്ഞു DO അളക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അതാണ് ഇവിടെ ഒരു പിശക് സംഭവിച്ചത് കാഥോഡ് പ്ലാറ്റിനവും ആനോഡ് വെള്ളിയുമാണ് കഴിഞ്ഞ തവണ ഞാൻ ഇത് തിരിച്ചു പറഞ്ഞു എന്നു തോന്നുന്നു അതിനാൽ കാഥോഡ് പ്ലാറ്റിനമാണ് ആനോഡ് വെള്ളിയാണ് പിന്നെ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാക്ടീസ് പ്രശ്നം 4 1 കണ്ടു അതിന്റെ പരിഹാരവും നമ്മൾ പരിശോധിച്ചുവെന്ന് ഞാൻ കരുതുന്നു നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എയറേഷനും അജിറ്റേഷനും aeration Agitation നമ്മൾ സംസാരിച്ചപ്പോൾ ഇവ രണ്ടും DO യെ ബാധിക്കുന്നുവെന്നും അവ കോശങ്ങളിൽ ഷിയർ സ്ട്രെസ്സ് ഉണ്ടാക്കുന്നുവെന്നും നമ്മൾ പറഞ്ഞിരുന്നു ഷിയർ സ്ട്രെസ്സ് എന്താണ് നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം പക്ഷെ അത് പ്രശ്നമല്ല നിങ്ങളുടെ പശ്ചാത്തലത്തെ അനുസരിച്ചു അറിയാം അറിയാതിരിക്കാം നമുക്ക് ഒരു ചപ്പാത്തി പന്ത് കുഴച്ചെടുത്തത് അല്ലെങ്കിൽ റൊട്ടി കുഴച്ചെടുത്തത് എടുത്ത് ആ കുഴച്ചെടുത്തത് നിങ്ങളുടെ കൈപ്പത്തികൾക്കിടയിൽ വയ്ക്കുക ഷിയർ സ്ട്രെസ്സ് ഈ രീതിയിൽ മനസ്സിലാക്കാം എന്നിട്ട് കൈപ്പത്തികൽകൊണ്ട് ചെറുതായി അമർത്തി എതിർദിശയിലേക്ക് നീക്കുമ്പോൾ പന്തിന് എന്ത് സംഭവിക്കും പന്ത് വികൃതമാവുന്നുഅല്ലേ ചപ്പാത്തി കുഴച്ചെടുത്തത് വികലമാകും കൈപ്പത്തികൾ എതിർ ദിശകളിലേക്ക് നീങ്ങുമ്പോൾ അവലംബിക്കുന്ന ഷിയർ ബലം കാരണം പന്ത് വികലമാകുന്നു ചപ്പാത്തി കുഴച്ചെടുത്തതിന്റെ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് അത് പരത്തുന്നത് അത്തരം ശക്തികളെ ഷിയർ ശക്തികൾ എന്ന് വിളിക്കുന്നു അവ ഉപരിതല ശക്തികളാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രണ്ട് കൈപ്പത്തികൾക്കിടയിൽ ആപേക്ഷിക വേഗത ഉണ്ടാകുമ്പോൾ ഈ കൈപ്പത്തി ഈ ദിശയിലേക്ക് നീങ്ങുന്നു ഈ കൈപ്പത്തി ഈ ദിശയിലേക്കും നീങ്ങുന്നു അല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ ദിശയിലേക്ക് നീങ്ങുന്നു പക്ഷേ വ്യത്യസ്ത വേഗതയിൽ രണ്ട് കൈപ്പത്തികൾക്കിടയിൽ ആപേക്ഷിക വേഗതയുണ്ട് അതിനിടയിൽ പിടിച്ചിരിക്കുന്ന കുഴച്ചെടുത്തത് ഷിയർ സ്ട്രെസ്സ് അനുഭവിക്കുന്നു അത് അവിടെ കുഴച്ചെടുത്തത് വികൃതമാക്കും ഒരു ബയോറിയാക്റ്റർ പോലുള്ളവയിൽ ദ്രാവക പരിതസ്ഥിതിയിൽ ആപേക്ഷിക വേഗത അല്ലെങ്കിൽ വേഗത ഗ്രേഡിയന്റുകൾ ധാരാളമായി നിലനിൽക്കുന്നു വേഗത ഗ്രേഡിയന്റുകൾ എന്നാൽ ഒരു നിശ്ചിത ദൂരമുള്ള വേഗതയിലെ വ്യത്യാസം വേഗതയുടെ ദൂരവുമായി ബന്ധപ്പെട്ട ഡെറിവേറ്റീവ് dv dx dv dy തുടങ്ങിയവയാണ് അതിനാൽ അവ വേഗത ഗ്രേഡിയന്റുകളാണ് വേഗത ഗ്രേഡിയന്റു കളുള്ളിടത്തോളം കാലം ഷിയർ സ്ട്രെസ്സ് ഉണ്ടാകും കോശങ്ങൾ ഷിയർ സ്ട്രെസ്സ് അനുഭവിക്കും അതിനാൽ ധാരാളം വേഗത ഗ്രേഡിയന്റുകളുള്ള ഒരു ബയോറിയാക്ടർ പരിതസ്ഥിതി ദ്രാവക പരിസ്ഥിതി എന്നിവയുടെ സഹായത്തോടെ ഷിയർ സ്ട്രെസ് ഉണ്ടാക്കുന്നു ദ്രാവകം ചലിക്കുന്നതിനാൽ വേഗത ഗ്രേഡിയന്റുകൾ വരുന്നു അവിടെയുള്ള അജിറ്റേഷൻ അല്ലെങ്കിൽ എയറേഷൻ എന്നിവ കാരണം ദ്രാവകം നീങ്ങുന്നു വായുസഞ്ചാരവും ദ്രാവകത്തെ ചലിപ്പിക്കുന്നു ഇത് വേഗത ഗ്രേഡിയന്റുകൾക്ക് കാരണമാകുന്നു അതിനാൽ ഇത് ഷിയാർ സ്ട്രെസ്സിന് കാരണമാകും ആയതിനാൽ എയറേഷനും അജിറ്റേഷനുംaeration agitation വേഗത ഗ്രേഡിയന്റുകൾക്ക് കാരണമാകുന്നു ബയോറിയാക്ടറുകളിൽ ഷിയർ സ്ട്രെസ്സ് ബബിൾ പൊട്ടൽ വായു കുമിള പൊട്ടുന്നതും തകരാറുണ്ടാക്കാം പക്ഷേ തകരാറ് മറ്റൊരു സംവിധാനത്തിലൂടെയാണ് അതായത് ബബിൾ പൊട്ടൽ മൂലം പുറത്തുവിടുന്ന ഊർജ്ജം എയറേഷനും അജിറ്റേഷനുംaeration agitation ഷിയർ സ്ട്രെസ്സ് നു കാരണമാകുന്നു കാരണം അവ ബയോറിയാക്ടറിലെ വേഗത ഗ്രേഡിയന്റുകൾക്ക് കാരണമാകുന്നു അതിനാൽ ഷിയർ സ്ട്രെസ്സിനെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട് സസ്തന കോശങ്ങൾ ജന്തു കോശങ്ങൾ പോലുള്ള ചില കോശങ്ങൾക്ക് ഒരു സെൽ വാൾ ഇല്ല അതിനാൽ അവിടെ ഷിയർ സ്ട്രെസ്സിനു കൂടുതൽ സാധ്യതയുണ്ട് ചില കോശങ്ങൾ അവയ്ക്ക് ഒരു സെൽ വാൾ ഉള്ളതിനാൽ അവയ്ക്ക് സാധ്യത കുറവാണ് ഇവയെല്ലാം ആകാം അല്ലായിരിക്കാം കാരണം നിങ്ങൾക്ക് ഒരു സെൽ വാൾ ഉണ്ടെങ്കിൽപ്പോലും ഷിയർ സ്ട്രെസ്സ് ഫലങ്ങൾ ഉണ്ടാകാം കാരണം സെൽ വാൾ കട്ടിയുള്ളതാണ് ഇത് എളുപ്പത്തിൽ ചലിക്കാൻ അനുവദിക്കുന്നില്ല ഒപ്പം ഉള്ളിലെ ഉള്ളടക്കങ്ങൾ സ്വതന്ത്രമായി നീങ്ങേണ്ടതുണ്ടെങ്കിൽ സെൽവാൾ അത് അനുവദിക്കുന്നില്ലെങ്കിൽ അതും സമ്മർദ്ദത്തിന് കാരണമാകും ആയതിനാൽ ഷിയർ സ്ട്രെസ്സ് ബയോറിയാക്ടറുകളിലെ എല്ലാ കോശങ്ങളിലും ഉണ്ടാകുന്നു ഷിയർ സ്ട്രെസ്സ് ഒരു പരിധി വരെ നേരിടാൻ ചിലവക്ക് കഴിയും ചിലവക്ക് അതിന് കഴിയില്ല നമ്മൾ അതിനെക്കുറിച്ച് അറിയണം കാരണം അത് ബയോറിയാക്ടർ വിജയകരമാകുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കും അതിനു ശേഷം നമുക്ക് ബയോറിയാക്ടറുകളുടെ സ്കെയിൽ അപ്പ് നോക്കാം സ്കെയിൽ അപ്പ് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പ്രക്രിയ വികസിപ്പിച്ചെടുക്കുമ്പോൾ സാധാരണയായി ആദ്യം ചെറിയ തോതിൽ ലാബ് തോതിൽ വികസിപ്പിച്ചെടുക്കുന്നു ഒരു ഷെയ്ക്ക് ഫ്ലാസ്കിലും മറ്റും പോലെ എന്നിട്ട് ഒരു ബയോറിയാക്ടറിൽ ഒരുപക്ഷേ 1 ലിറ്റർ 2 ലിറ്റർ ബയോറിയാക്ടർ അല്ലെങ്കിൽ ലാബിൽ തന്നെ നമ്മൾക്കു 10 20 ലിറ്റർ ബയോറിയാക്റ്റർ ഉണ്ടെങ്കിൽ അവിടെ 10 മടങ്ങ് സ്കെയിൽ അപ്പ് നടക്കുന്നു 1 ലിറ്റർ ചെറിയ തോതിൽ കണ്ടെത്തിയത് വലിയ തോതിൽ വിവർത്തനം ചെയ്യണം അതാണ് സ്കെയിൽ അപ്പ് അർത്ഥമാക്കുന്നത് കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് സ്കെയിൽ അപ്പ് ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം വ്യവസായ തലത്തിൽ ഈ പ്രക്രിയ പ്രായോഗികമാകണമെന്നില്ല അവിടെ സ്കെയിൽ അപ്പ് നിരവധി മടങ്ങുകളിൽ ആകാം നമ്മൾ കണ്ടതുപോലെ ഒരു ലക്ഷം 2 ലക്ഷം റിയാക്ടറുകൾ 2 ലക്ഷം ലിറ്റർ റിയാക്ടറുകൾ തുടങ്ങിയവ ആകാം ലാബ് സ്കെയിൽ 1 ലിറ്റർ ആണ് അതിനാൽ ഈ സ്കെയിൽ അപ്പ് ബയോ റിയാക്ടറുകളുടെ ഒരു പ്രധാന വശമാണ് അവയുടെ ചില വശങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു ചിലവ് കാരണം അവ ചെറിയ തോതിൽ വികസിപ്പിച്ചെടുത്തു പ്രക്രിയ നടക്കുമോ എന്ന് നമ്മൾക്ക് അറിയില്ല പ്രക്രിയകൾ ആദ്യം ചെറിയ തോതിൽ വികസിപ്പിച്ചെടുക്കുന്നു അതിനാൽ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് എങ്ങനെ വലിയ തോതിൽ പ്രവർത്തിക്കാൻ കഴിയും നിരവധി നിർണായക മാനദണ്ഡങ്ങൾ ചെറിയ തോതിൽ നിന്ന് വ്യത്യസ്തമാകാം അവിവിടെയാണ് അതിന്റെ പ്രാധാന്യം ചില മാനദണ്ഡങ്ങൾ ചെറിയ തോതിൽ ഫലപ്രദമായിരുന്ന അതേ തോതിൽ വലിയ തോതിൽ ആക്കിയാണ് സ്കെയിൽ അപ്പ് ചെയ്യുന്നത് അതിനാൽ വലിയ തോതിലുള്ള ഉചിതമായ മാനദണ്ഡങ്ങൾ ചെറിയ തോതിൽ ഫലപ്രദമായവയ്ക്ക് തുല്യമായി ശരിയാക്കുന്നു ഇവയെ സ്കെയിൽ അപ്പ് മാനദണ്ഡം എന്ന് വിളിക്കുന്നു സ്കെയിൽ അപ്പ് മാനദണ്ഡങ്ങൾക്കിടയിൽ നമ്മൾക്ക് ഒന്നു തിരഞ്ഞെടുക്കാനും അത് ഒരു സ്കെയിൽ അപ്പ് മാനദണ്ഡമായി കണക്കാക്കാനും കഴിയില്ല അതായത് ഇംപെല്ലറിന്റെ വ്യാസം തുല്യമായിരിക്കണം അല്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല ശരിയല്ലേ അല്ലെങ്കിൽ ഷാഫ്റ്റ് വ്യാസം തുല്യമായിരിക്കണം എന്നൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റില്ല അതിൽ ഒരു യുക്തിയില്ല അതിനാൽ ഉചിതമായ കാര്യങ്ങൾ 2 തലങ്ങളിലും ചെറിയ തോതിൽ അതുപോലെ തന്നെ വലിയ തോതിലും സമാനമായിരിക്കണം സാധാരണയായി കാണുന്നത് ജ്യാമിതീയ മാനദണ്ഡങ്ങൾ എന്നു വിളിക്കുന്ന തുല്യത പ്രവർത്തന പാരാമീറ്ററുകളുടെ തുല്യത എന്നിവയാണ് ഇവ രണ്ടും കാണിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കുന്നതിനോ നമുക്ക് ഇളക്കിയ ടാങ്കിന്റെ ഉദാഹരണം എടുക്കാം ആദ്യം ജ്യാമിതീയ സമാനത അറിയാൻ ഇളക്കിയ ടാങ്ക് ആണെങ്കിൽ ഇതാണ് ഇളക്കിയ ടാങ്ക് ദീർഘചതുരം യഥാർത്ഥത്തിൽ ഇത് ഒരു സിലിണ്ടറാണ് ഇതാണ് ടാങ്ക് ഇളക്കിയ ടാങ്ക് ഇതാണ് ഇംപെല്ലർ ഇത് ഇംപെല്ലർ ഷാഫ്റ്റ് ഇംപെല്ലർ ബ്ലേഡുകൾ വിവിധ അളവുകൾ ഇവിടെ നൽകിയിരിക്കുന്നു Di എന്നത് ഒന്നിൽ നിന്ന് വ്യാസമുള്ളതാണ് ഒരു ഇംപെല്ലറിന്റെ അഗ്രം ഒരു വിപരീത ഇംപെല്ലറിന്റെ അഗ്രം വരെ W എന്നത് ഇംപെല്ലറിന്റെ വീതിയാണ് L എന്നത് ഇംപെല്ലർ ബ്ലേഡിന്റെ നീളം ടാങ്കിന്റെ അടിയിൽ നിന്ന് ഇംപെല്ലറിന്റെ മധ്യത്തിലേക്കുള്ള ദൂരമാണ് C ഒരു സെറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾക്ക് ഇത് ഒരു ഉദാഹരണമായി എടുക്കും D എന്നത് പാത്രത്തിന്റെ വ്യാസം H പാത്രം ഉൾകൊള്ളുന്ന ദ്രാവകത്തിന്റെ ഉയരം B യെ ഒരു ബാഫിൾ എന്ന് വിളിക്കുന്നു ഏകദേശം 4 അല്ലെങ്കിൽ 6 ബാഫ്ല്കൾ ഉണ്ട് ബാഫ്ല് എന്തിനാണെന്ന് വച്ചാൽ നിങ്ങൾ ഒരു ദ്രാവകം ഇളക്കുമ്പോൾ എന്ത് സംഭവിക്കും ദ്രാവകം തിരിക്കാൻ നിങ്ങൾ ഒരു ഇംപെല്ലർ ഉപയോഗിക്കുമ്പോൾ ഒരു ചുഴി രൂപം കൊള്ളുന്നതിനാൽ അത് ഒഴിവാക്കാൻ ബാഫിൾ ഉപയോഗിക്കുന്നു അതിനാൽ ദ്രാവകം മുകളിൽ ഇതുപോലെയായിരിക്കും അത് നല്ലതല്ല ചുഴി രൂപപ്പെടുന്നത് നിർത്താൻ നിങ്ങൾക്ക് സ്ട്രിപ്പുകൾ ഉണ്ട് നേർത്ത സ്ട്രിപ്പുകൾ വിപരീത വ്യാസത്തിൽ ഏകദേശം 4 സ്ട്രിപ്പുകൾ ഉണ്ട് ഈ മെറ്റൽ സ്ട്രിപ്പുകൾ ചുഴി രൂപപ്പെടുന്നത് നിർത്താൻ കഴിയും അതാണ് ഈ ബഫലിന്റെ പ്രവർത്തനം അതിനാൽ ജ്യാമിതീയ സമാനതയ്ക്കായി ഇവയാണ് പരിഗണിക്കപ്പെടുന്നത് വ്യാസം അനുപാതത്തിലേക്കുള്ള ഉയരം 1 ആയിരിക്കണം ഇളക്കിയ ടാങ്കുകളുടെ കാര്യത്തിൽ ഇവ വളരെ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഇത് താഴേക്ക് എടുക്കുകയാണെങ്കിൽ H ഹരിക്കണം D 1 ആയിരിക്കണം ടാങ്ക് വ്യാസം കൊണ്ട് ഹരിച്ച DI ഇംപെല്ലർ വ്യാസം അറ്റം മുതൽ അറ്റം വരെ മൂന്നിലൊന്ന് ആയിരിക്കണം Di ഹരിക്കണം D 1 ഹരിക്കണം 3 ആയിരിക്കണം B ബാഫലിന്റെ ഘനം ടാങ്കിന്റെ വ്യാസം കൊണ്ട് ഹരിചാൽ 1 ഹരിക്കണം 12 ആയിരിക്കും ഇത് ചെറിയ തോതിൽ അതുപോലെ തന്നെ ജ്യാമിതീയ സമാനതയ്ക്കായി വലിയ തോതിൽ അതുപോലെ നിലനിർത്തണം C ഇത് ഇംപെല്ലറിന്റെ അടിയിൽ നിന്ന് അഥവാ ടാങ്കിന്റെ അടിയിൽ നിന്ന് ഇംപെല്ലർ മധ്യത്തിലേക്ക് വ്യാസത്തിലേക്കുള്ള ദൂരം ഈ അനുപാതം 1 ഹരിക്കണം 3 ആയിരിക്കണം കൂടാതെ W ഇംപെല്ലർ ബ്ലേഡിന്റെ വീതി ഹരിക്കണം വ്യാസം അഞ്ചിലൊന്ന് ആയിരിക്കണം L ഇംപെല്ലർ ബ്ലേഡിന്റെ നീളം നാലിലൊന്നായിരിക്കണം അതിനാൽ ടാങ്ക് വ്യാസം ഉപയോഗിച്ച് സാധാരണവൽക്കരിച്ച നാല് മാനദണ്ഡങ്ങൾ ഉണ്ട് കൂടാതെ ഇംപെല്ലർ വ്യാസം അടിസ്ഥാനമാക്കിയുള്ള 2 എണ്ണം ഉണ്ട് അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ നിലനിർത്തുന്നിടത്തോളം കാലം ഇവ തിരഞ്ഞെടുക്കപ്പെടുന്നു ചെറിയ തോതിലും വലിയ തോതിലും നമുക്ക് ജ്യാമിതീയ സമാനത ഉണ്ടായിരിക്കും പ്രവർത്തന സമാനതയ്ക്കായി സ്ഥിരമായ KLa നിലനിർത്താൻ നമ്മൾ നോക്കുന്നു നമ്മൾ KLa കണ്ടു ഇത് ഒരു പ്രധാന സ്കെയിൽ അപ്പ് പാരാമീറ്റർ കൂടിയാണ് ചെറുതും വലുതുമായ സ്കെയിലുകളിൽ KLa യുടെ സ്ഥിരമായ വോള്യൂമെട്രിക് മാസ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് നിലനിർത്താൻ നമ്മൾ നോക്കുന്നു യൂണിറ്റ് വോളിയത്തിന് P V സ്ഥിരമായ വൈദ്യുതി ഉപഭോഗത്തിനായി നമ്മൾ നോക്കുന്നു സ്ഥിരമായ ഇംപെല്ലർ ടിപ്പ് സ്പീഡിനായി നമ്മൾ തിരയുന്നു ഇംപെല്ലർ ടിപ്പ് നിങ്ങൾക്കറിയാമോ ഇംപെല്ലർ വ്യാസം Di 𝜋𝐷i ആണ് അത് സൃഷ്ടിക്കുന്ന വൃത്തം കറങ്ങുന്ന ദൂരം ആയിരിക്കും ഇപ്പോൾ n r p m ഇംപെല്ലറിന്റെ വേഗതയാണ് താഴ്ന്ന നിലയിലും ഉയർന്ന തലത്തിലും സ്ഥിരമായി നിലനിർത്തേണ്ട വേരിയബിൾ നിങ്ങൾക്ക് കിട്ടുന്നു കൂടാതെ ബയോറിയാക്ടറിൽ സ്ഥിരമായി അലിഞ്ഞുപോയ ഓക്സിജൻ സാന്ദ്രതയും സ്ഥിരമായ റെയ്നോൾഡ്സ് നമ്പറും നോക്കുന്നു വ്യവസായകമായി വാസ്തവത്തിൽ കുറച്ചു കാര്യങ്ങളെ നോക്കൂ ഇവയൊക്കെ സാധാരണമാണ് ഗാർസിയ ഒച്ചോവയും ഗോമസും 2009 ൽ എഴുതിയ ഈ പ്രബന്ധം ബയോടെക്നോളജി അഡ്വാൻസസിൽ പ്രസിദ്ധീകരിച്ചു ശീർഷകം ബയോ റിയാക്ടർ സ്കെയിൽ അപ്പും അതായത് മൈക്രോബയൽ പ്രക്രിയകളിലെ ഓക്സിജൻ കൈമാറ്റ നിരക്കു ഒരു അവലോകനം Bioreactor scale up and oxygen transfer rate in microbial processes an overview വ്യവസായത്തിൽ സാധാരണഗതിയിൽ ഈ സ്കെയിൽ അപ്പ് ഒരു KLa യുടെ അടിസ്ഥാനത്തിൽ 30 ശതമാനം സമയമാണ് ചെയ്യുന്നത് യൂണിറ്റ് വോളിയം അടിസ്ഥാനത്തിൽ സ്ഥിരമായ വൈദ്യുതി സമയത്തിൻറെ ഉപഭോഗത്തിൽ 30 ശതമാനം സ്ഥിരമായ ഇംപെല്ലർ അഗ്ര വേഗത സമയത്തിൻറെ 20 ശതമാനം സ്ഥിരമായ DO മൂല്യം സമയത്തിൻറെ 20 ശതമാനം അതായത്സാധാരണയായി വ്യവസായത്തിൽ സ്കെയിൽ അപ്പിനായി തിരഞ്ഞെടുക്കുന്ന പാരാമീറ്ററുകൾ രണ്ട് സ്കെയിലുകളുടെയും സൂക്ഷ്മ പരിസ്ഥിതിയുടെ തുല്യത വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാമോ സെല്ലുകൾ ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്ന യഥാർത്ഥ വ്യവസായ ശാലകളാണ് അതിനാൽ ഓരോ കോശത്തിൻറെയും സൂക്ഷ്മ പരിസരം അല്ലെങ്കിൽ പരിസ്ഥിതി അതേ നിലയിലുള്ള പ്രകടനം പ്രതീക്ഷിക്കുന്നതിന് സമാനമായി സൂക്ഷിക്കേണ്ടതുണ്ട് ഈ രണ്ട് തലങ്ങളിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ മാനദണ്ഡങ്ങൾ സാധാരണയായി പ്രവർത്തിക്കുന്നു പക്ഷേ അവ എല്ലായ്പ്പോഴും പ്രവർത്തിക്കണമെന്നില്ല അതിനാൽ നാം അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അത് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ പോയി കോശ തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ അടുത്ത മൊഡ്യൂൾ അതിനെ കുറിച്ചാണ് ഒരു വ്യവസായ കാഴ്ചപ്പാടിൽ നിന്ന് പോലും സൂക്ഷ്മ തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇത് ചില ആശയം നൽകുന്നു നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൂക്ഷ്മ പരിസ്ഥിതി പ്രധാനമാണ് കാരണം കോശങ്ങൾ ആണ് യഥാർത്ഥ വ്യവസായ ശാലകൾ അത് സൂക്ഷ്മ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നു സ്കെയിൽ അപ്പ് ഇപ്പോഴും ഒരു കലയാണ് ഇന്നും അത് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇത് ഒരു ഉറച്ച ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് നമ്മൾ സ്കെയിൽ അപ്പിനെക്കുറിച്ച് സംസാരിച്ചു സ്കെയിൽ ഡൌൺ എന്നത് തുടക്കത്തിൽ അൽപ്പം വിചിത്രമായി തോന്നാം കാരണം സാധാരണയായി നിങ്ങൾ സ്കെയിൽ അപ്പിനെക്കുറിച്ച് കേൾക്കുന്നു സ്കെയിൽ ഡൌൺ അല്ല പക്ഷേ ബയോറിയാക്ടറുകളിൽ സ്കെയിൽ ഡൌൺ പ്രധാനമാണ് വലിയ തോതിൽ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പക്ഷേ അവ ഉൽപാദനത്തിന് ആവശ്യമാണ് അവ ഉൽപാദനത്തിനായി തുടർച്ചയായി ഉപയോഗിച്ചേക്കാം അതിനാൽ നിങ്ങൾക്ക് വലിയ തോതിൽ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല സാധാരണഗതിയിൽ ഈ പരീക്ഷണങ്ങളിൽ വളരെയധികം പണം ചെലവഴിക്കാൻ നിങ്ങൾക്കു പറ്റില്ല പരീക്ഷണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തുചെയ്യും അപ്പോൾ ആ പരീക്ഷണം പരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവും നിങ്ങൾക്ക് നഷ്ടപ്പെടും അതിനാൽ എന്താണ് ചെയ്യുന്നത് വലിയ തോതിൽ പ്രതിനിധീകരിക്കുന്നതിനാണ് ചെറിയ തോതിൽ കാര്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വലിയ തോതിൽ പ്രവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ചെറിയ തോതിൽ പരീക്ഷണങ്ങൾ നടത്താം എന്നിട്ട് നിങ്ങൾക്ക് അവ വലിയ തോതിൽ നടപ്പിലാക്കാൻ കഴിയും അതിനാൽ നിലവിലുള്ള പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ഇടത്തരം ഘടനയിലെ മാറ്റങ്ങൾ ഉദാഹരണത്തിന് അതേ ഘടകങ്ങളുടെ ഒരു പുതിയ ബാച്ച് പോലും സ്കെയിൽ ഡൌൺ തലത്തിൽ പരീക്ഷിക്കപ്പെടുന്നു പുതിയതോ പരിഷ്കരിച്ചതോ ആയ ഉൽപാദന പ്രക്രിയകൾ ആദ്യം സ്കെയിൽ ഡൌൺ രീതിയിൽ പരീക്ഷിക്കുന്നു പ്രവർത്തന സാഹചര്യങ്ങളായ ഈനോകുലം രീതികൾ ആന്റിഫോം ഉപയോഗം അലിഞ്ഞ ഓക്സിജൻ ലെവൽ തുടങ്ങിയവ പരീക്ഷിച്ചുനോക്കുന്നു കൂടാതെ ഉൽപാദിപ്പിക്കുന്ന ബയോറിയാക്ടറിൽ നിന്ന് സമയമെടുക്കാതെ കോശ ഉൽപ്പന്നങ്ങൾക്കായുള്ള പുതിയ പ്രവർത്തന നടപടിക്രമങ്ങളുടെ സാധൂകരണം ഈ സാഹചര്യങ്ങളിലെല്ലാംസ്കെയിൽ ഡൌൺ പ്രധാനമായിത്തീരുന്നു അതിനാൽ ഫലപ്രദമായ ചെയ്താൽ ഒരേ സമയം നിരവധി ഹ്രസ്വരൂപത്തിലുള്ള ബയോ റിയാക്ടറുകളിൽ ഒന്നിലധികം തന്ത്രങ്ങളും വേഗത്തിൽ സ്ക്രീനിംഗും ചെയ്യുന്നത് സാധ്യമാകും അതിനാൽ നിങ്ങൾ ചെറുതായ റിയാക്ടറുകളിൽ വിവിധ കാര്യങ്ങൾ സ്ക്രീൻ ചെയ്യുന്നു അവയെല്ലാം വലിയ തോതിലുള്ള പ്രതിനിധി വ്യവസ്ഥകളുമായി സമ്പർക്കം പുലർത്തുന്നു അതിനുശേഷം ഒരു സ്കെയിൽ ഡൌൺ പ്രക്രിയയിൽ നിന്നുള്ള ഫലങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും പ്രത്യേകിച്ച് വ്യവസായ തലത്തിൽ ഇവിടെ 2 പ്രബന്ധങ്ങൾ ആണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവ നിങ്ങളുടെ റഫറൻസിന് വേണ്ടി നൽകുന്നു നമ്പർ 27 സ്കെയിൽ അപ്പിനെ കുറിച്ചാണ് ഗാർസിയ ഒച്ചോവയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു എൻസൈക്ലോപീഡിയ ഓഫ് ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജിയിൽ ബയോ റിയാക്ടർ സ്കെയിൽ ഡൌൺ പലോമറെസ് പാലോമറെസ് ലാറ ഒക്ടാവിയോ റാമിറെസ് 2010 ബയോ റിയാക്ടർ സ്കെയിൽ ഡ on ൺ Palomares et al Palomares Lara and Octavio Ramirez 2010 Bioreactor scale down in the Encyclopedia of Industrial Biotechnology കൂടാതെ സ്കെയിൽ ഡൌൺലെ മൂല്യനിർണ്ണയ വ്യൂ പോയിൻറ് ഈ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് പരിശോധിക്കാം അത്രയുമാണ് മൊഡ്യൂൾ 4 മൊഡ്യൂൾ 4 ൽ ചില ബയോ റിയാക്റ്റർ എൻവയോൺമെന്റ് പാരാമീറ്ററുകളുടെയും ബയോറിയാക്ടർ സംസ്കാരങ്ങളുടെയും അതുവഴി ബയോറിയാക്റ്റർ പ്രകടനത്തിന്റെയും ഫലം നമ്മൾ പരിശോധിച്ചു താപനില പിഎച്ച് ഇടത്തരം ഘടന അജിറ്റേഷൻ വായുസഞ്ചാരത്തിന്റെ അളവ് ഓക്സിജന്റെ അളവ് എന്നിവ നമ്മൾ പരിശോധിച്ചു ഓക്സിജന്റെ അളവ് അലിഞ്ഞു ചേർന്നതു നമ്മൾ കുറച്ച് വിശദീകരിച്ചു തുടർന്ന് പിന്നെ മൊഡ്യൂൾ 4ൽ ബയോ റിയാക്ടറുകളുടെ സ്കെയിൽ അപ്പ് സ്കെയിൽ ഡൌൺ എന്നിവയും പരിശോധിച്ചു നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ മൊഡ്യൂൾ 5 പറയും ഇത് ഈ കോഴ്സിന്റെ അവസാന മൊഡ്യൂളായിരിക്കും അപ്പോൾ കാണാം